ഹലോ സുന്ദര രാമസ്വാമിയുടെ റീഫ്ലവറിംഗ് എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണത്തിൽ ഈ കഥ എങ്ങനെയാണ് കൃത്യമായി ആരംഭിക്കുന്നതെന്ന് ഞാൻ കാണാൻ പോകുന്നു അതിനുശേഷം ഈ റീഫ്ലവറിങ് എന്ന ആശയത്തിന്റെ പ്രാധാന്യവും നമുക്ക് നോക്കാം തമിഴ് സാഹിത്യ പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സുന്ദര രാമസ്വാമി 1931 ൽ ജനിച്ച അദ്ദേഹം 2005 ൽ അന്തരിച്ചു സാഹിത്യവൃത്തങ്ങളിൽ അദ്ദേഹം സ്നേഹത്തോടെ സു എന്ന് അറിയപ്പെടുന്നു കാലച്ചുവട് എന്ന പ്രസിദ്ധമായ ഒരു മാസിക അദ്ദേഹം എഡിറ്റ് ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കൂടാതെ അദ്ദേഹം തമിഴ് ഭാഷയിൽ പല വിഭാഗങ്ങളിലും എഴുതി പല നിരൂപകരുടെയും അഭിപ്രായത്തിൽ അദ്ദേഹം തമിഴ് എഴുത്തുകാരിൽ വെച്ച് ഏറ്റവും വൈവിധ്യമാർന്നതും നൂതനവുമായ ഒരാളും മികച്ച ആധുനികവാദിയും അതോടൊപ്പം കണ്ണഞ്ചിപ്പിക്കുന്ന സ്റ്റൈലിസ്റ്റുമാണ് ഈ ആഴ്ചയിലെ റീഫ്ലവറിംഗ് എന്ന ഈ കഥയിൽ പോലും അദ്ദേഹത്തിന്റെ രചനാശൈലിയും അദ്ദേഹത്തിന്റെ പുതുമയുടെയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഏറെ പ്രശംസ നേടിയതുമായ അദ്ദേഹത്തിന്റെ ചില നോവലുകൾ ഇവയാണ് ഒരു പുലിയ മറത്തിൻ കഥൈ ഇത് 2013 ൽ ബ്ലെയ്ക്ക് വെന്റ്വർത്ത് വിവർത്തനം ചെയ്തു ജെ സിലകുറിപ്പുകൾ ഇത് 2004 ൽ എ ആർ വെങ്കിടാചലപതി വിവർത്തനം ചെയ്തു കൂടാതെ കുഴന്തൈകൾ പെങ്ങൾ ആങ്കൽ കുട്ടികൾ സ്ത്രീകൾ പുരുഷന്മാർ ഇത് വിവർത്തനം ചെയ്തത് ലക്ഷ്മി ഹോംസ്റ്റോം ആണ് അതിനാൽ ഈ വിവർത്തനങ്ങൾക്കെല്ലാം വായനക്കാരുടെ പൊതു നിരൂപക പ്രശംസ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് 'റീഫ്ലവറിംഗി'നെക്കുറിച്ച് ഈ വിമർശനമുന്നയിക്കാനുണ്ട് റീഫ്ലവറിംഗ് രസകരവും ആകർഷകവും വളരെയധികം പോസിറ്റീവുമായ കഥയാണെന്ന് അദ്ദേഹം പറയുന്നു ഒരു യന്ത്രം കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെങ്കിലും അതിന് ചിന്ത വികാരം കരുതലുള്ള മനുഷ്യനുമായി പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന വസ്തുത മനസ്സിൽ കൊണ്ടുവരുന്ന വളരെ മാനുഷികമായ ഒരു കഥ അതിനാൽ ഈ വിമർശകൻ ഗോപാലകൃഷ്ണൻ മനുഷ്യനും ഒരു യന്ത്രവും തമ്മിലുള്ള കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്ന രണ്ട് വൈരുദ്ധ്യങ്ങളെ വെളിപ്പെടുത്തുന്നു മനുഷ്യനെ എങ്ങനെ മാറ്റിസ്ഥാപിക്കാൻ യന്ത്രം ശ്രമിക്കുന്നു കഥയിൽ ആത്യന്തികമായി അത് സംഭവിക്കുന്നില്ല കൂടാതെ കഥ രസകരവും ആകർഷകവുമാണെന്നും അത് വളരെ പോസിറ്റീവ് ആണെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നത് വളരെ ശരിയാണ് കാരണം അത്രയധികം ഈഗോ ക്ലാഷുകൾ ഉണ്ടായിട്ടും ആവശ്യമുള്ള സമയങ്ങളിൽ ആളുകൾ പരസ്പര രക്ഷക്കായി വരുന്നു അതിനാൽ ഇത് വളരെ സ്ഥിരീകരിക്കുന്ന ഒരു കഥയാണ് ഹൃദയസ്പർശിയായ ഒരു കഥയാണ് വായനക്കാർ വീണ്ടും വീണ്ടും തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ഇപ്പോൾ ഞാൻ ശീർഷകത്തിൽ നിന്നും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് പ്രത്യാഘാതങ്ങളിലേക്ക് നോക്കുക അല്ലെങ്കിൽ കഥയുടെ ശീർഷകത്തിന്റെ പ്രാധാന്യങ്ങളിലേക്ക് നോക്കുക അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ റീഫ്ലവറിങ് റീഫ്ലവറിങ് എന്നത് പൂക്കൾ വീണ്ടും പൂക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് പൂക്കൾ വീണ്ടും തഴച്ചുവളരുന്ന ഒന്ന് പുനരുജ്ജീവിപ്പിച്ച ഒന്നിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എന്തെങ്കിലും ഉള്ളതിനെ അതിന്റെ ആത്മാവിനെ പുനഃസ്ഥാപിച്ചു റീഫ്ലവറിങ് എന്ന ഈ വാക്കുമായി ബന്ധപ്പെട്ട ചില അർത്ഥങ്ങൾ ഇവയാണ് വീണ്ടും പൂക്കുന്നു ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വരുന്നു സ്വന്തത്തിലേക്ക് തിരികെ മടങ്ങി വരുന്നു ഒരിക്കൽ കൂടി അതിനാൽ ഈ ശീർഷകത്തിന്റെ പ്രാധാന്യം എന്താണ് ഈ ശീർഷകത്തിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കേന്ദ്രകഥാപാത്രത്തെ നോക്കുകയാണെങ്കിൽ ഈ ആശയം റൌത്തറിന്റെ ആത്മാവിന്റെ പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് ഈ കഥയിൽ മുഴുവൻ പറയുന്നതെന്ന് തോന്നുന്നു അതിനാൽ കഥയിലെ പ്രധാന കഥാപാത്രം റൌത്തറാണ് അപ്പോൾ എന്താണ് കഥ എന്താണ് ഒരു കഥ സംഭവങ്ങളുടെ ഒരു കൂട്ടമാണ് കഥ ഒപ്പം റീഫ്ലവറിംഗിലെ ഈ സംഭവങ്ങൾ ഒരു തുണിക്കടയിൽ ബില്ലുകൾ ഉണ്ടാക്കുന്ന അന്ധനായ റൌത്തറിനെ ചുറ്റിപ്പറ്റിയാണ് സംഭവിക്കുന്നത് ഈ കഥാപാത്രം വളരെ രസകരമാണ് കാരണം അവൻ അന്ധനാണ് ചില വായനക്കാർക്ക് ആ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ദൃശ്യമായ മുദ്ര അതാണ് എന്നാൽ റൌത്തറിനെക്കുറിച്ച് കൂടുതൽ രസകരം എന്ന് പറയുന്നത് അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ ഒരു അഗ്രഗണ്യൻ ആണ് എന്നതാണ് വാസ്തവത്തിൽ അദ്ദേഹം ഒരു പ്രതിഭയാണ് മുഴുവൻ തുണിക്കടയും അദ്ദേഹത്തിന്റെ അതിവേഗ കണക്കുകൂട്ടൽ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് നിരവധി വ്യത്യസ്ത വസ്തുക്കളെ കൂട്ടുവാനും ബില്ലുകൾ വേഗത്തിൽ ഒരു പ്രയാസവും കൂടാതെ ഉണ്ടാക്കാനും കഴിയും അതുകൊണ്ടാണ് കടയുടെ ഉടമ അദ്ദേഹത്തെ കൂടുതൽ തിരക്കുന്നതും റൌത്തറിനെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ ഐഡന്റിറ്റി ഇതാണ് അദ്ദേഹം സാമ്പത്തികമായി വളരെയധികം കുഴപ്പത്തിലാണ് അതിനാൽ അദ്ദേഹം ഒരു അന്ധനാണ് അദ്ദേഹം ഒരു ഗണിതശാസ്ത്ര പണ്ഡിതനാണ് കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിത്യവും കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയുമാണ് അദ്ദേഹം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് റൌത്തറിന് കടയോടുള്ള തന്റെ മൂല്യത്തെക്കുറിച്ച് ബോധമുണ്ടെന്നതാണ് അവൻ എത്രത്തോളം വേണ്ടപെട്ടവനാണെന്നും ആഗ്രഹിക്കപ്പെടുന്നുവെന്നും കൂടാതെ എത്രയധികം പ്രധാനപ്പെട്ടവനാണെന്നും അവനറിയാം കാരണം ഇതുവരെയും ബില്ലുകൾ അടിച്ചിരുന്നത് അവനാണ് അതിനാൽ അവൻ വളരെ പ്രധാനപ്പെട്ടതാണെന്ന വസ്തുതയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുള്ളതിനാൽ അവൻ അസന്തുഷ്ടനാകുമ്പോൾ അവൻ അത് ജോലിയിൽ കാണിക്കില്ല അതിനാൽ അതൃപ്തി എന്നാൽ ജോലിയിൽ കാണിക്കരുത് എന്നാണ് അത് വളരെ രസകരമാണ് അതിനാൽ കടയുടെ ഉടമ റൌത്തറിനെ ആശ്രയിക്കുന്നതിനാൽ വീട്ടിൽ പ്രയാസമുണ്ടാകുമ്പോൾ അവനെ സാമ്പത്തികമായി സഹായിക്കുന്നു കടയുടെ ഉടമ അവന്റെ കടമെല്ലാം വീട്ടി അവന്റെ വീട് ലേലത്തിൽ നിന്ന് രക്ഷിക്കുന്നു ഇപ്രകാരം അവന്റെ കടയുടെ ഉടമ അവനെ രക്ഷിച്ചെങ്കിലും പക്ഷേ റൌത്തർ വേണ്ടത്ര നന്ദി കാണിക്കുന്നില്ലെന്ന് അയാൾക്ക് അനുഭവപ്പെടുന്നു കടയുടെ ഉടമ ആത്യന്തികമായി അവൻ എന്താണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അയാൾക്ക് ആദ്യമായി ബോംബെയിൽ നിന്ന് ഒരു കാൽക്കുലേറ്റർ ലഭിക്കുന്നു കാൽക്കുലേറ്ററിന്റെ ഈ പ്രവേശനം റൌത്തറിനെ മാനസികമായി ബാധിക്കുന്നു അവൻ കുഴഞ്ഞു വീഴുന്നു തുടർന്ന് അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല കാരണം ഈ നിർദ്ദിഷ്ട യന്ത്രം അദ്ദേഹത്തെ മാറ്റിസ്ഥാപിച്ചുവെന്ന് അയാൾ കരുതുന്നു പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ഗണിതശാസ്ത്രത്തിൽ മാത്രമല്ല കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിലും ശക്തനാണെന്ന് എല്ലാവരും മനസ്സിലാക്കുമ്പോൾ അവൻ സുഖം പ്രാപിക്കുന്നു കൂടാതെ സാധനങ്ങൾ എല്ലാം എവിടെയാണെന്ന് അവനറിയാം കടയിലെ ഓരോന്നിന്റെയും എല്ലാത്തിന്റെയും വിലയും അവനറിയാം ഓരോ വ്യക്തിയുടെയും സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം പോലും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം തീയതികൾ ഓർത്ത് വയ്ക്കുന്നു അദ്ദേഹം ഓരോ വാർഷികങ്ങളും അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഓർത്ത് വയ്ക്കുന്നു അവൻ ഒരിക്കൽക്കൂടി ഒഴിച്ചുകൂടാനാവാത്തവനാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു അയാൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു അല്ലെങ്കിൽ അയാൾ തുണിക്കടയുടെ മാനേജരായി സ്വയം പ്രൊമോട്ട് ചെയ്യുന്നു അതിനാൽ ഈ റീഫ്ലവറിങ് റൌത്തറിന്റെ റീഫ്ലവറിങ്ങിനെക്കുറിച്ചുള്ള ഈ ആശയം പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് അവന്റെ ഐഡന്റിറ്റികളിൽ ഒന്ന് നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ അവന്റെ ഐഡന്റിറ്റികളിൽ ഒന്ന് മെഷീൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുമ്പോൾ കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിൽ ഉന്നതനായ ഒരു മനുഷ്യനെന്ന നിലയിൽ അവൻ തന്റെ വ്യക്തിത്വം പുനർനിർമ്മിക്കുന്നു അതിനാൽ അവൻ വളരെ മികച്ചവനായിത്തീർന്നു അവന്റെ വൈജ്ഞാനിക കഴിവുകൾ കാരണം അയാൾ കടയിൽ ഉന്നതനായി തുടരുന്നു അവസാനം അയാൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു നമ്മൾ കഥയെ ഒരു കൂട്ടം സംഭവങ്ങളായി കണ്ടു അതുകൊണ്ട് നമുക്ക് ഇനി കഥയുടെ ഇതിവൃത്തം നോക്കാം കൃത്യമായി എന്താണ് പ്ലോട്ട് സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പ്ലോട്ട് സംഭവങ്ങളുടെ ക്രമങ്ങൾക്കിടയിൽ സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം നാം നോക്കേണ്ടതുണ്ട് കൂടാതെ ഇതിവൃത്തം മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളുടെ ചിന്തകളും പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അത് പ്ലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയും സങ്കീർണ്ണമാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നു ഇതിവൃത്തത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന സംഭവങ്ങളും കഥാപാത്രങ്ങളും തമ്മിലുള്ള ബന്ധം നാം കാണേണ്ടതുണ്ട് സംഭവങ്ങളിലേക്ക് നമുക്ക് നോക്കാം അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നോക്കാം കഥ തുടങ്ങുന്ന രംഗം പ്രാരംഭ രംഗം പരിശോധിച്ചുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക രംഗത്തെ ഞാൻ വളരെ മോഹിപ്പിക്കുന്ന ശാന്തമായ രംഗം എന്ന് വിളിക്കും നമുക്ക് രണ്ട് കഥാപാത്രങ്ങളുണ്ട് പ്രാരംഭ രംഗത്തിൽ അമ്മയേയും കഥാകാരനേയും പരിചയപ്പെടുത്തുന്നു "അമ്മ കട്ടിലിൽ കിടക്കുകയായിരുന്നു ഞാൻ തറയിൽ ചുരുണ്ടുകൂടിയിരുന്നു ഞങ്ങൾ വൈകി എഴുന്നേൽക്കുന്നവരായിരുന്നു വർഷങ്ങളായി പോരാടിയതിന് ശേഷം ആ പദവി ഞങ്ങൾ നേടി എടുത്തു കാരണം ഞങ്ങളുടെ കുടുംബം നേരത്തെ എഴുന്നേൽക്കുന്നതിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് തലമുറകളായി ഞങ്ങൾ ഇപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുന്നു എന്നാൽ അമ്മയും ഞാനും അങ്ങനെയല്ല അമ്മയ്ക്ക് ആസ്ത്മ ഉണ്ടായിരുന്നു ഞാൻ സന്ധി വേദനയാൽ ഭാരപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിരാവിലെ അതിനു കഴിയുമായിരുന്നില്ല " ഈ രംഗം വൈകി എഴുന്നേൽക്കുന്ന ഒരു അമ്മയെയും ഒരു ആൺകുട്ടിയെയും കുറിച്ചാണ് അവർ രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുന്നു അതിന് അവർക്ക് കൃത്യമായ കാരണമുണ്ട് അവർ അശക്തരാണ് ഒരാൾക്ക് ആസ്ത്മയുണ്ട് മറ്റൊരാൾക്ക് സന്ധി വേദനയുണ്ട് അതുകൊണ്ട് അവരെ അതിരാവിലെ എഴുന്നേൽക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു സൂര്യോദയത്തിന് മുമ്പ് വളരെ നേരത്തെ എഴുന്നേൽക്കുന്നതിനും അതിനുമുമ്പ് കുളിക്കുന്നതിനും അവരുടെ കുടുംബത്തിന് ഈ പാരമ്പര്യമുണ്ടെങ്കിൽ പോലും അതിനാൽ ഇതൊരു ഗാർഹിക സാഹചര്യമാണ് ഒരു പ്രത്യേക ഗാർഹിക കുടുംബത്തെക്കുറിച്ചുള്ള വിവരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ ശാന്തമായ ഒരു രംഗമാണ് ഒപ്പം കഥാകാരൻ ആരുടെ കണ്ണുകളിലൂടെയാണോ നമ്മൾ ഈ കഥ കാണുന്നത് ആ ആൺകുട്ടി തന്റെ പിതാവ് അപ്പയെ കുറിച്ച് വിവരിക്കുന്നു അദ്ദേഹം തന്റെ തുണിക്കടയിൽ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു അതിനാൽ അപ്പാ വീടിന്റെ നാഥൻ തന്റെ താക്കോൽ എടുക്കുന്നു അദ്ദേഹം വീട്ടിൽ നിന്നും പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ ഇവയാണ് വീടിനു പുറത്ത് കാത്തുനിൽക്കുന്ന കുതിര ബഗ്ഗിയുടെ മണി മുഴങ്ങുന്നു അതിനുശേഷം അവിടെ ചെരിപ്പുകളുടെ ശബ്ദമുണ്ട് അദ്ദേഹം സ്ലിപ്പറുകൾ ധരിക്കുമ്പോൾ ക്വീച്ച് ക്വീച്ച് എന്ന ശബ്ദം ഉണ്ടാകുന്നു അതിനുശേഷം കുടയുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി അദ്ദേഹം കുട തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു അദ്ദേഹം അതിനെ ദിവസേനയുള്ള കുടയുടെ ആരോഗ്യ പരിശോധന എന്ന് വിളിക്കുന്നു അത് തികഞ്ഞ പ്രവർത്തന ക്രമത്തിലാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി പിതാവ് വീട്ടിൽ നിന്ന് പോകുന്നതിനുമുമ്പ് സംഭവിക്കുന്ന സ്റ്റീരിയോറ്റിപ്പിക്കൽ കാര്യങ്ങളുടെ കൂട്ടമാണ് ഇവ ഇന്നത്തെ ദിവസവും ആ ആൺകുട്ടി പ്രതീക്ഷിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ സംഭവിക്കുമെന്നാണ് എന്നാൽ അത് സംഭവിക്കുന്നില്ല കൂടാതെ അതിരാവിലെ തന്നെ ഉറങ്ങിക്കിടന്ന് അദ്ദേഹത്തെ നോക്കുന്ന ആ കുട്ടി പിതാവിന്റെ ഒരു വിവരണം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും ഒപ്പം ഈ വിവരണം നമുക്ക് ലഭിക്കും ഞാൻ അദ്ദേഹത്തെ പ്രൊഫൈലിൽ കാണുന്നത് ഒരു കണ്ണുള്ള കണ്ണടയും പകുതി നെറ്റിയിൽ വിഭൂതിയും ചന്ദന പേസ്റ്റിന്റെ ഒരു ബിന്ദുവും ഗോൾഡൻ മഞ്ഞക്ക് മുകളിൽ ചുവന്ന കുങ്കുമത്തിന്റെ തിളക്കമുള്ള ഒരു പുള്ളിയും വരച്ചിരിക്കുന്നു പിതാവ് എല്ലാം കൊണ്ടും തയ്യാറായി അദ്ദേഹം എല്ലാം ക്രമത്തിൽ ആണ് ചെയ്യുന്നത് അദ്ദേഹം തന്റെ പൂജ നടത്തി അത് അദ്ദേഹത്തിന്റെ നെറ്റിയിലെ പവിത്രമായ ചാരത്തിൽ നിന്നും ഈ ചന്ദന പേസ്റ്റിൽ നിന്നും ചുവന്ന കുങ്കുമത്തിൽ നിന്നും വ്യക്തമാണ് അതിനാൽ ഇതാണ് വിശദാംശങ്ങൾ ഇതൊരു ഹിന്ദു കുടുംബത്തിൽ മതപരവും സാമൂഹികവുമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പിതാവ് വീട്ടിൽ നിന്നും പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞുഎന്നാൽ അദ്ദേഹത്തിന് സാധിച്ചില്ല കാരണം സംഭവബഹുലമായ അപ്രതീക്ഷിത വഴിത്തിരിവ് ഉണ്ടാകുന്നു അതിനാൽ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്തുപോകുന്നതിനുപകരം മകനെ വിളിച്ച് ഉണർത്തുന്നു മുമ്പത്തെ രംഗത്തിൽ അച്ഛനെ രഹസ്യമായി നോക്കിയ അതേ ആൺകുട്ടിയെ അതിനാൽ ഇവിടെ എന്താണ് പ്രശ്നം പ്രശ്നം ആദ്യമായി വ്യക്തമായി അത് റൌത്തർ തുണിക്കടയിൽ ബിൽ ഉണ്ടാക്കുന്ന ആ മനുഷ്യൻ ജോലിക്ക് എത്തിയിട്ടില്ല എന്നതാണ് തന്റെ മകൻ അമ്പി എന്ന കുട്ടി റൌത്തറിന്റെ വീട്ടിൽ പോയി അവനെ തിരികെ കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അതിനാൽ ദൃശ്യങ്ങളുടെ ശാന്തത ചെറുതായി തകരാൻ തുടങ്ങുന്നു ആ രംഗത്തിൽ വിള്ളലുകളുണ്ടാകുന്നു ആ കുട്ടി പെട്ടെന്ന് എഴുന്നേൽക്കുന്നില്ല പിന്നെ അമ്മയും അച്ഛനും അവനെ വിളിച്ച് ഉണർത്തി എന്നിട്ട് അമ്മ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ പ്രഹസനം തുടരുന്നത് അവനെ കൂടാതെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ അപമാനിക്കുന്ന ഈ പതിവ് രീതി പിന്തുടരുന്നതും എന്നിട്ട് അവനോട് തിരിച്ചു വരാൻ അപേക്ഷിക്കുന്നതും ഒപ്പം അവൾ പറയുന്നു ഈ പ്രഹസനം വളരെ അധികം മുന്നോട്ട് പോയിരിക്കുന്നു അവൾ പറഞ്ഞു ഒരു ദിവസം ഇണങ്ങുന്നു അടുത്ത ദിവസം പിരിയുന്നു ഒപ്പം അച്ഛൻ കോപിക്കുന്നു അദ്ദേഹം പറയുന്നു ഓണം ഇങ്ങ് അടുത്തെത്തി നിനക്ക് കടയിൽ വന്ന് ബില്ലുകൾ ഉണ്ടാക്കാം അയാൾ ആക്രോശിച്ചു ഉടനടി ഞാൻ ഉദ്ദേശിക്കുന്നത് ശാന്തതയിൽ നിന്ന് കൊടുങ്കാറ്റിലേക്ക് സംഭവങ്ങളുടെ പെട്ടെന്നുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്നു ദേഷ്യം അവന്റെ ചുണ്ടുകളെ വളച്ചൊടിച്ചു അവന്റെ വാക്കുകൾ മന്ദഗതിയിലാകുകയും വിഷമത്തിലാക്കുകയും ചെയ്തു അവൾ ചോദിക്കുന്നു ഈ ലോകത്ത് ബില്ലുകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരേയൊരു വ്യക്തി റൌത്തർ മാത്രമാണോ അമ്മ ചോദിച്ചു അവൾ തികച്ചും നിർബന്ധിതയാണ് തുടർന്ന് അയാൾ നിങ്ങളുടെ വായ അടയ്ക്കുക എന്ന് മറുപടി നൽകുന്നു അതിനാൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഈ സംഭാഷണം നടക്കുന്നതും ആൺകുട്ടി സാക്ഷിയാകുന്നതും കാണുമ്പോൾ നമുക്ക് ധാരാളം വിവരങ്ങൾ ലഭിക്കുന്നു ഈ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിതാവിന്റെ സ്വഭാവമാണ് അയാൾക്ക് എളുപ്പത്തിൽ കോപിക്കാൻ കഴിയും അയാൾ വളരെയധികം ദേഷ്യപ്പെടുന്നു വളരെ പെട്ടെന്ന് കൂടാതെ റൌത്തറിന് വലിയ അഹന്തയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം പിതാവ് അതൃപ്തിപ്പെടുകയും ജീവനക്കാരനോട് തന്റെ അതൃപ്തി കാണിക്കുകയും ചെയ്യുമ്പോൾ അവൻ ജോലിക്ക് വരാൻ വിസമ്മതിക്കുന്നു അതും അവിടെ വ്യക്തമാണ് കൂടാതെ ഉടമയും ബില്ലുണ്ടാക്കുന്ന മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കം സംഭവിക്കുമ്പോൾ അമ്മ മധ്യസ്ഥയാകുന്നതും നമ്മൾ കാണുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ആ ആൺകുട്ടി നമ്മളോട് പറയുന്നത് ആ കുട്ടി കഥാകാരനും കഥയിലെ സംഭവങ്ങളുടെ സാക്ഷിയുമാണ് ഈ നിർദ്ദിഷ്ട സാഹചര്യത്തിൽ പ്രതിസന്ധി പരിഹരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ അമ്മയാണ് എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു എങ്ങനെയെന്ന് നമുക്ക് നോക്കാം റൌത്തർ ആൺകുട്ടിയുടെ വീട് സന്ദർശിക്കുന്നു അമ്പി റൌത്തറിന്റെ വീട് സന്ദർശിക്കുന്നു ആ രംഗത്തിന് ഒരു പ്രത്യേക അജണ്ടയുണ്ട് സാമ്പത്തിക അസ്ഥിരത റൌത്തറിന്റെ ദാരിദ്ര്യത്തെ കാണിക്കുന്നു എങ്ങനെയാണ് അത് ചെയ്യുന്നത് റൌത്തറിന്റെ പരിസ്ഥിതിയെക്കുറിച്ചും വീടിനെക്കുറിച്ചും അത് ഏതുതരം വീടാണെന്നും വിവരിക്കുന്നതിലൂടെ അത് 'മേൽക്കൂര കുറഞ്ഞ ഒരു ടൈൽ പാകിയ വീട് ആണ് മുൻവശത്തെ മുറ്റത്ത് വലതുവശത്ത് ഒരു കിണർ ഉണ്ടായിരുന്നു അതിന്റെ മതിൽക്കെട്ട് പാരപെറ്റ് പെയിന്റ് ചെയ്യാത്ത തകർന്ന അതിനാൽ ശരിയായ ക്രമത്തിലല്ല നന്നായി പരിപാലിച്ചിട്ടില്ല അത് പരിപാലിക്കാൻ പണമില്ല വെൽവെറ്റ് പായൽ അതിന് ചുറ്റും ശോഭയുള്ള പാടുകളായി ഈ കിണറിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രകൃതിയും പാരപെറ്റ് മതിലും മതിലിന്റെ യഥാർത്ഥ അവസ്ഥയും തമ്മിൽ വ്യത്യാസമുണ്ട് 'കല്ല് പടികൾ വീട്ടിലേക്ക് നയിക്കുന്നു ഗണ്ണി ചാക്കിന്റെ ഒരു സ്ട്രിപ്പ് കൊണ്ട് പ്രവേശന കവാടം മറച്ചിരിക്കുന്നു ' വീട്ടിലെ അംഗങ്ങൾക്ക് സ്വകാര്യത നൽകാനായി ചാക്ക് ഉപയോഗിക്കുന്നു

അവൻ വളരെ പാവപ്പെട്ടവനാണെങ്കിലും വീടിന്റെ നടുവിൽ റൌത്തർ ഇരിക്കുന്ന രീതി കണ്ടാൽ മിക്കവാറും പ്രതീക്ഷിക്കുന്നത് പോലെ കമ്പനി നമ്മളോട് പറയാൻ പോകുന്നത് അയാൾ അധിപനായിരിക്കാം അവൻ തന്റെ ചുറ്റുപാടുകളുടെ അധിപനാണ് അങ്ങനെ റൌത്തർ ഒരു തമ്പുരാനെപ്പോലെ കാലു കുത്തി ഇരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ആൺകുട്ടിയെ ക്ഷണിക്കുന്നു അദ്ദേഹം വളരെ നന്നായി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം അവന്റെ അമ്മയെ പറ്റി ചോദിക്കുന്നു കൂടാതെ അമ്മയുടെ ആസ്ത്മ പ്രശ്നവും അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന പ്രകൃതിദത്ത പരിഹാരങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു ജോലിയിലേക്ക് തിരികെ വിളിക്കാൻ അവൻ ശരിക്കും ആഗ്രഹിക്കുന്നു അത് വ്യക്തമാണ് കടയുടെ ഉടമയുടെ പെരുമാറ്റത്തിൽ അമ്മ ക്ഷമ ചോദിക്കുന്നുവെന്ന് കുട്ടി പറഞ്ഞപ്പോൾ ഭർത്താവ് റൌത്തർ ഉടൻ തന്നെ ക്ഷമാപണം സ്വീകരിച്ചു എന്നിട്ട് അവൻ പറയുന്നു അമ്മേ നീ ഒരു മഹത്തായ സ്ത്രീയാണ് എഴുന്നേൽക്കൂ നമുക്ക് പെട്ടെന്ന് കടയിലേക്ക് പോകാം അതിനാൽ അവനെ കൊണ്ടുപോകാൻ വന്ന ആൺകുട്ടിയോട് ഇത് നിർദ്ദേശിക്കുന്നു അതിനാൽ ഈ നിർദ്ദിഷ്ട രംഗത്തിൽ വളരെ രസകരം എന്നത് റൌത്തർ ഒരു തമ്പുരാൻ എന്ന ആശയമാണ് അതിശക്തനായ ഒരു വ്യക്തിയുടെ ഉപമ അവന്റെ കുടുംബത്തിലെ പ്രഭു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ പ്രത്യേക രംഗത്തിൽ അടിവരയിടുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ചെയ്യുന്നു ഇപ്പോൾ ഒരു പ്രത്യേക കഥയുടെ ഇതിവൃത്തം വായിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ കലഹങ്ങളെക്കുറിച്ചാണ് ഒരു നിർദ്ദിഷ്ട കഥയിലെ വിവിധ തരത്തിലുള്ള കലഹങ്ങൾ എന്തൊക്കെയാണ് അത് ഏത് തരത്തിലുള്ള കലഹമാണ് കലഹങ്ങൾ ശാരീരിക കലഹങ്ങളാണോ ബൌദ്ധികമാണോ ധാർമ്മികമാണോ അതോ വൈകാരികമോ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അവ എങ്ങനെ പരിഹരിക്കും അവ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ തരം തിരിക്കുന്നു അവ എങ്ങനെ പരിഹരിക്കപ്പെടും ആരെ കൊണ്ട് അതിനാൽ ഒരു കഥയിൽ പ്രതിനിധാനം ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക സമൂഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും പ്രശ്നങ്ങളുണ്ടാക്കുന്ന കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും കഥാലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ പരിഹരിക്കാൻ സഹായിക്കുന്ന കഥാപാത്രങ്ങളുടെ സ്വത്വത്തെക്കുറിച്ചും നമ്മോട് പറയുന്ന ചില ചോദ്യങ്ങളാണിവ നിങ്ങൾക്ക് ചോദിക്കാവുന്ന മറ്റ് പൊതുവായ ചോദ്യം ഇവയാണ് നന്മയും തിന്മയും തമ്മിലുള്ള പൊരുത്തക്കേട് കുത്തനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവോ ഇവ തിരിച്ചറിയാനും വിഭജിക്കാനും എളുപ്പമാണോ അല്ലെങ്കിൽ സംഘർഷം കൂടുതൽ സങ്കീർണ്ണവും സൂക്ഷ്മവുമാണോ അതിനാൽ ഇവ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് മറ്റ് ചോദ്യം എന്ന് പറയുന്നത് പ്രതിസന്ധിയുടെ സ്വഭാവം എന്താണ് അത് ഏതുതരം പ്രതിസന്ധിയാണ് അത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമോ ആരാണ് അത് ഉണ്ടാക്കിയത് അതിനാൽ പ്ലോട്ടിംഗ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണിവ സുന്ദര രാമസ്വാമിയുടെ ഈ റീഫ്ലവറിംഗ് എന്ന നിർദ്ദിഷ്ട കഥയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രത്യേക കഥയിലെ സംഘർഷങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ സംഘർഷങ്ങൾ പ്രാഥമികമായി സാമ്പത്തിക സംഘട്ടനങ്ങളാണെന്നും സാമ്പത്തിക സംഘർഷങ്ങൾ ഈ കഥയിൽ ഒരു ഡൊമിനോ ഇഫക്റ്റ് ഉള്ളതുപോലെ മറ്റ് സംഘട്ടനങ്ങൾ സൃഷ്ടിക്കുമെന്നും ഞാൻ നിർദ്ദേശിക്കുന്നു അതിനാൽ ഈ കഥയിലെ ആദ്യത്തെ പ്രതിസന്ധി നോക്കാം റൌത്തർ വീട്ടിലേക്ക് കോപത്തോടെ മടങ്ങുന്നതിലേക്ക് നയിച്ച ആദ്യ പ്രതിസന്ധി എന്നത് തുണിക്കടയിൽ നിന്ന് വസ്ത്രങ്ങൾ കടം വാങ്ങുന്നതിനെക്കുറിച്ച് ആണ് അതിനാൽ തന്റെ കുടുംബത്തിന് കടമായി ഒരു കൂട്ടം വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ റൌത്തർ ആഗ്രഹിക്കുന്നു എന്നാൽ അയാൾക്ക് കടയുടമയിൽ നിന്ന് അതിനുള്ള അനുവാദം ലഭിക്കുന്നില്ല അതിനാൽ താൻ തിരഞ്ഞെടുത്ത വസ്ത്രങ്ങൾ പായ്ക്ക് ചെയ്യാനും അത് മാറ്റി വയ്ക്കുവാനും അദ്ദേഹം കടയിലെ സഹായിയോട് ആവശ്യപ്പെടുന്നു അത് ശരിക്കും തുണിക്കടയുടെ ഉടമയെ പ്രകോപിപ്പിക്കുന്നു എനിക്ക് കൂടുതൽ വായ്പ തരാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ ഇതാണ് ആദ്യത്തെ പ്രതിസന്ധി ഒപ്പം രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് റൌത്തറിന്റെ വീട് ലേലം ചെയ്യാൻ പോകുന്നു എന്നതാണ് തന്റെ വീട്ടിലെ കടങ്ങൾ വീട്ടാൻ കഴിയാത്തതിനാൽ വീട് ലേലത്തിൽ ആയി അങ്ങനെ അവന്റെ എല്ലാ കുടുംബാംഗങ്ങളും കുടുംബത്തിലെ സ്ത്രീകളും അവർ ഒരു വണ്ടിയിൽ തുണിക്കടയിലേക്ക് വരുന്നു അവർ തുണിക്കടകൾക്ക് മുന്നിൽ വിലപിക്കുന്നു അതിനാൽ അതാണ് രണ്ടാമത്തെ പ്രതിസന്ധി കൂടാതെ മൂന്നാമത്തെ പ്രതിസന്ധി സംഭവിക്കുന്നത് എപ്പോഴാണെന്നുവെച്ചാൽ തുണികടയുടെ ഉടമ വീടിന്റെ കടങ്ങൾ എല്ലാം അടച്ചതിനുശേഷം അതിന്റെ അടുത്ത ദിവസം തന്നെ റൌത്തർ പതിവ് പോലെ കടയിൽ ജോലിക്ക് വരുന്നതിനുപകരം അയാൾ പോയി ഒരു എതിരാളിയുടെ കടയിൽ ജോലി ചെയ്യുന്നു അപ്പോഴാണ് മൂന്നാമത്തെ പ്രതിസന്ധി ഉടലെടുക്കുന്നത് അതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ചെട്ടിയാർ ആരുടെ ജോലിസ്ഥലത്തേക്ക് ആണോ താൻ ബില്ലുകൾ ഉണ്ടാക്കാൻ പോകുന്നത് അയാൾ തന്റെ എല്ലാ കടങ്ങളും അടയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അതിനാൽ കഥയിലെ ഈ സുപ്രധാന സംഭവങ്ങളെയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കൂട്ടം സാമ്പത്തിക സംഘർഷങ്ങളുണ്ട് ഈ സാമ്പത്തിക സംഘർഷങ്ങൾ വൈകാരികവും ധാർമ്മികവുമായ സംഘർഷങ്ങളായി മാറുന്നു ഒരു കാര്യം മറ്റൊന്നായി മാറുന്നു അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ സാമ്പത്തിക സംഘർഷങ്ങൾക്ക് വൈകാരിക ആഘാതം ഉണ്ട് കാരണം അവയെ തരംതിരിക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ അഹംബോധത്തെ മുറിവേൽപ്പിക്കുന്നു ആദ്യ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിയും അതായത് ഒരു സ്ത്രീ മധ്യസ്ഥയായി ആൺകുട്ടിയുടെ അമ്മ മധ്യസ്ഥയായി അവളുടെ ക്ഷമാപണം റൌത്തർ അംഗീകരിച്ചു അവൻ ജോലിയിൽ തിരിച്ചെത്തി കൂടാതെ അദ്ദേഹത്തെ അപമാനിച്ച കുടുംബത്തിൽ നിന്ന് ക്ഷമാപണം ഉണ്ടാകുന്നതുവരെ വരാൻ അദ്ദേഹം വിസമ്മതിച്ചു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രതിസന്ധിയുടെ കാര്യത്തിൽ അയാൾ ജോലി ചെയ്യുന്ന ചെട്ടിയാരുടെ വീട്ടിൽ നിന്ന് അവനെ തിരികെ കൊണ്ടുവരുന്നത് ഷോപ്പ് അസിസ്റ്റന്റ് കോലപ്പനാണ് അതിനാൽ അത് ഇവിടെ ഒരു പാറ്റേൺ കൂടി പറയുന്നു റൌത്തറിനെ തിരികെ ചെന്ന് തുണിക്കടയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായി നമ്മൾ കാണുന്നു കൂടാതെ അവൻ ഒരു അന്ധനാണെന്നും അവൻ ജോലി ചെയ്യുന്ന കടയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ടെന്നും നാം ഓർക്കേണ്ടതുണ്ട് അതിനാൽ അത് നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് സ്വന്തം വഴി കണ്ടെത്താനുള്ള ശാരീരിക കഴിവില്ലായ്മയും വളരെ രസകരമാണ് ഇപ്പോൾ റൌത്തർ ചെട്ടിയാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെട്ടിയാരുടെ കടയിൽ ജോലി ചെയ്യാൻ വേണ്ടി സ്വന്തം കടയിലേക്ക് വരുന്നതിനുപകരം അവൻ പറയുന്നു എന്തൊരു അനീതി അദ്ദേഹത്തിന്റെ കടങ്ങൾക്കുള്ള മുഴുവൻ തുകയും കോടതിയിൽ അടച്ച ശേഷം ഞാൻ തിരിച്ചുവന്നതേയുള്ളൂ അവൻ എന്നെ നിരാശപ്പെടുത്തി നന്ദികെട്ട ദുഷ്ടൻ " അപ്പ അലറി റൌത്തറിന് ഈ നിലയിൽ അവനെ ഒറ്റിക്കൊടുക്കാൻ കഴിയുമെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വീടുമായി ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അദ്ദേഹം ശരിപ്പെടുത്തി അയാൾ ഈ മനുഷ്യനുവേണ്ടി വീട് തിരികെ വാങ്ങി നൽകി എന്നിട്ട് അടുത്ത ദിവസം ജോലിക്ക് വരുന്നതിനുപകരം അവൻ ഒരു എതിരാളിയായ വസ്ത്ര വ്യാപാരിയുടെ കടയിലേക്ക് പോയി അതിനാൽ ഈ വഞ്ചന അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഈ വഞ്ചനയും സാമ്പത്തിക പ്രശ്നങ്ങൾ വൈകാരിക സംഘർഷങ്ങളിലേക്ക് എങ്ങനെ നയിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും അതിനാൽ റൌത്തറിന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചു കൂടാതെ എന്തുകൊണ്ടാണ് അദ്ദേഹം ചെട്ടിയാരുടെ കടയിലേക്ക് പോകുന്നത് എന്നതിന്റെ കാരണവും ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ കാരണം എന്നത് അയാൾക്ക് കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് കൂടാതെ റൌത്തറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ചെട്ടിയാർ സാഹചര്യം ചൂഷണം ചെയ്യുകയും പകരം തന്റെ കടയിൽ വന്ന് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഈ അന്ധന്റെ കണക്കുകൂട്ടൽ കഴിവുകൾ അയാൾക്ക് ഉപയോഗിക്കാനാകും കൂടാതെ അവൻ തന്റെ എല്ലാ കടങ്ങളും അടയ്ക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ ആ നിർദ്ദിഷ്ട രംഗത്തിൽ കോലപ്പൻ അദ്ദേഹത്തോട് റൌത്തർ ചെട്ടിയാരുടെ കടയിൽ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെ അസ്വസ്ഥനും കോപിഷ്ഠനുമായി കഥയിലെ പരാമർശം അതാണ് കൂടാതെ ഷോപ്പ് അസിസ്റ്റന്റ് കോലപ്പനും ഒരു ക്രോധത്തിലേക്ക് സ്വയം എടുത്ത് ചാടി കടയുടമയുടെ സാന്നിധ്യത്തിൽ അവനും ദേഷ്യപ്പെടുന്നു എന്നിട്ട് അയാൾ പറയുന്നു അവൻ അതായത് റൌത്തറിന് എങ്ങനെ കണക്കുകൂട്ടലുകൾ നടത്തണമെന്ന് അറിയാം പക്ഷേ അവൻ ഒരു വിഡ്ഢിയാണ് അവന്റെ ഗണിതശാസ്ത്രപരമായ കഴിവിന്റെ കാര്യത്തിൽ അയാൾക്ക് ഉന്നതനാകാൻ കഴിയും എന്നാൽ യഥാർത്ഥ ലോകത്ത് ഒരു ജീവിതം നയിക്കുന്ന കാര്യത്തിൽ അവൻ ഒരു വിഡ്ഢിയാണ് അവൻ ഒരു മണ്ടനായ മനുഷ്യനാണ് കൂടാതെ ഇത് ഒരു ദുഷിച്ച ലോകമാണ് അദ്ദേഹം പറഞ്ഞു ഇത് തുണിക്കടയുടെ ഉടമയായ അപ്പയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സ്വന്തം അമ്മയെ പോലും വിശ്വസിക്കാൻ കഴിയില്ല അവൻ വളരെ അസ്വസ്ഥനാണ് അതുകൊണ്ട് അവൻ പറയുന്നു ഈ നാളുകളിൽ അമ്മയുടെ രൂപം പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഒടുവിൽ കോലപ്പൻ അവനെ തിരികെ കൊണ്ടുവന്നു ഒരിക്കൽ അവൻ തിരിച്ചെത്തിയപ്പോൾ റൌത്തർ പറയുന്നു എനിക്ക് എന്റെ സമനില നഷ്ടപ്പെട്ടു എനിക്ക് സമനില നഷ്ടപ്പെട്ടു അയ്യാ റൌത്തർ കടയുടെ ഉടമയുടെ മുന്നിൽ നിന്നു കൊണ്ട് പറഞ്ഞു നിങ്ങളെ നിലക്ക് നിർത്തേണ്ട ഒരു സമയം വരും തുണിക്കടയുടെ ഉടമ വളരെ അസ്വസ്ഥനാണ് സമയമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം ലഭിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ ദയവായി അത്തരം അഭിപ്രായങ്ങൾ പറയരുത് ഇത് വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്ന് റൌത്തർ പറയുന്നു അതിനാൽ ഈ സാഹചര്യം ഈ കഥയിലെ ഈ പ്രതിസന്ധി തുണിക്കട വ്യാപാരിയുടെ മാനവികതയിലുള്ള വിശ്വാസം പരിശോധിക്കുന്നു അതിനാൽ അവൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അമ്മയെ വിശ്വസിക്കാൻ കഴിയില്ല അതിനാൽ അമ്മയുടെ രൂപം ശുദ്ധവും സമഗ്രവുമായ എല്ലാത്തിനും സ്പർശന ശിലയായി ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നത് രസകരമാണ് വീണ്ടും കോലപ്പൻ ഞാൻ പറഞ്ഞതുപോലെ ഒരു എതിരാളിയുടെ കടയിൽ ജോലിക്ക് പോയ റൌത്തറിനോടുള്ള സ്വന്തം ദേഷ്യത്താൽ സാഹചര്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു നന്ദി ഇല്ലാത്ത ഒരു ദുഷിച്ച ലോകമാണെന്ന് തോന്നുന്നു വീണ്ടും മാതൃരൂപത്തിന്റെ സംബോധനയും നമ്മെ റൌത്തറിന്റെ അമ്മയുടെ സ്മരണയെ ഓർമ്മപ്പെടുത്തുന്നു അവളുടെ ഇടപെടലാണ് അവിടെ അവനെ ആദ്യത്തെ സാഹചര്യത്തിൽ ജോലിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അതിനാൽ അവിടെ ധാരാളം കണക്ഷനുകൾ ഉണ്ട് നിങ്ങൾ ഒരു ഭാഗം വളരെ അടുത്ത് വായിച്ചാൽ അത് നിങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് ഓർമ്മകളിലേക്കും നയിക്കും ഈ അസോസിയേഷനുകളിലൂടെ നിങ്ങൾക്ക് ചില തീമാറ്റിക് കണക്ഷനുകൾ ഉണ്ടാക്കാൻ കഴിയും കടയുടെ ഉടമയുടെ വാക്കുകളിൽ വീണ്ടും മുൻകരുതലുകളും മുന്നറിയിപ്പുകളും ഉണ്ട് വളരെ അസ്വസ്ഥനാകുമ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങളെ നിലക്ക് നിർത്തേണ്ട ഒരു സമയം വരും ബോംബെയിൽ നിന്നുള്ള കാൽക്കുലേറ്റർ അയാൾ അവതരിപ്പിക്കുമ്പോൾ റൌത്തറിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ വീഴ്ചയ്ക്ക് കാരണമാകുമ്പോൾ കടയുടമ മുൻകരുതൽ മനസ്സിലാക്കുന്നു ആ മുന്നറിയിപ്പ് സത്യമായി ചിത്രത്തിലേക്ക് കാൽക്കുലേറ്റർ വരുമ്പോൾ റൌത്തറിന്റെ അഹം അസ്വസ്ഥമാവുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഈ പ്രഭാഷണം വീക്ഷിച്ചതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളെ ബന്ധപ്പെടും